ഇപ്പോൾ ഓപ് ആമ്പ് ഉത്തമം അല്ലെങ്കിൽ അതിന് നിശ്ചിതമായ ഒരു ഗെയിൻ ഉണ്ടാകും അപ്പോൾ അതിൻറെ വിശകലനത്തിന് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള നിയന്ത്രണ ഉറവിടങ്ങൾ ഉള്ള സർക്യൂട്ടിൻറെ വിശകലനത്തിൽ നിന്നും വ്യത്യാസമൊന്നും ഉണ്ടാകില്ല കാരണം നമ്മൾ മുമ്പ് പരിഗണിച്ചിരുന്ന അതേ സർക്യൂട്ട് തന്നെ എടുക്കാം നമുക്ക് പറയാം A0 നിശ്ചിതമാണ് അതായത് ഓപ് ആമ്പ് ഉത്തമമല്ല അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇതും നമ്മൾ മുൻപ് വിശകലനം ചെയ്തിട്ടുള്ള എല്ലാ സർക്യൂട്ടുകളും തമ്മിലുള്ള ഒരേയൊരു വ്യത്യാസം എന്നുള്ളത് അവയുടെ ചിഹ്നമാണ് നമ്മൾ ആകെ ചെയ്യേണ്ടത് ഓപ് ആമ്പിന് പകരം ഗെയിൻ A0 ഉള്ള ഒരു വോൾട്ടേജിനാൽ നിയന്ത്രിതമായ വോൾട്ടേജ് ഉറവിടം വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ എൻറെ സർക്യൂട്ട് ഇതാകും ഇത് Vd ഇത് A0 Vd ഇപ്പോൾ നമുക്ക് ഈ നിയന്ത്രണ ഉറവിടം ഉണ്ട് പിന്നെ വോൾട്ടേജിനാൽ നിയന്ത്രിതമായ ഒരു വോൾട്ടേജ് ഉറവിടം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്കറിയാം അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യേണ്ടത് വോൾട്ടേജിനാൽ നിയന്ത്രിതമായ വോൾട്ടേജ് ഉറവിടത്തിന് പകരം ഒരു സൂപ്പർ നോഡ് വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരു സമവാക്യം നഷ്ടമാകും ഈ നോഡിൽ നമുക്ക് KCL എഴുതാൻ സാധിക്കില്ല അതിനുപകരം വോൾട്ടേജിനാൽ നിയന്ത്രിതമായ വോൾട്ടേജ് ഉറവിടത്തിനെ നിയന്ത്രിക്കുന്ന സമവാക്യം എഴുതാം അതിനാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ നോഡിൽ ഒരു KCL സമവാക്യം എഴുതാൻ കഴിയില്ല നമുക്ക് പറയാം അതായത് നിങ്ങൾ നോഡൽ വിശകലനം ചെയ്യുകയാണെങ്കിൽ അത് ഈ പ്രത്യേക നോഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് നിയന്ത്രണ ഉറവിടത്തിൻറെ സമവാക്യം ആയ V0 A0 x Vd എന്നത് ഒരു അധിക സമവാക്യം ആയി ഉപയോഗിക്കേണ്ടിവരും വോൾട്ടേജിനാൽ നിയന്ത്രിതമായ വോൾട്ടേജ് ഉറവിടം ഉപയോഗിച്ച് എങ്ങനെയാണ് നോഡൽ വിശകലനം ചെയ്യുക എന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് വോൾട്ടേജിനാൽ നിയന്ത്രിതമായ വോൾട്ടേജ് ഉറവിടം ഉപയോഗിച്ച് എങ്ങനെയാണ് മെഷ് വിശകലനം ചെയ്യുന്നത് എന്നും നമുക്ക് അറിയാം അതിനാൽ ഇത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേയല്ല വാസ്തവത്തിൽ ഉത്തമം അല്ലാത്ത ഓപ് ആമ്പുകൾ ഉപയോഗിച്ചുള്ള വിശകലനം എളുപ്പമാണ് വോൾട്ടേജിനാൽ നിയന്ത്രിതമായ വോൾട്ടേജ് ഉറവിടങ്ങൾ ഉള്ള ഏതൊരു ഒരു സർക്യൂട്ടിൻറെയും വിശകലനം പോലെയാണിത് ഉത്തമമായ ഓപ് ആമ്പ് സർക്യൂട്ടിൻറെ വിശകലനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോൾ മുൻപത്തെ സമീപനം ഉപയോഗിക്കാൻ കഴിയുകയില്ല കാരണം ഉത്തമമായ ഓപ് ആമ്പിൻറെ ഗെയിൻ അനന്തമാണ് നിങ്ങൾക്ക് അനന്തമായ ഒരു ഗുണന ഘടകം ഉണ്ടെങ്കിൽ നീതിപൂർവ്വമായ സമവാക്യങ്ങൾ എഴുതാൻ സാധിക്കില്ല അപ്പോൾ താഴെപ്പറയുന്നവയാണ് നമ്മൾ ചെയ്യുന്നത് വീണ്ടും പ്രശ്നം ഇതാണ് ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ടി ലെ കറണ്ട് എത്രയാണ് എന്ന് നമുക്ക് അറിയില്ല ഞാനിതിനെ IOPA എന്ന് വിളിക്കുന്നു ഇത് എന്താണെന്ന് അറിയില്ല അതായത് ഇതിന് ഓപ് ആമ്പിൻറെ സവിശേഷതകളുമായി ബന്ധമില്ല ഓപ് ആമ്പ് എന്താണ് എന്നതിൻറെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏതെങ്കിലും സമവാക്യം എഴുതാൻ സാധിക്കില്ല സ്വതന്ത്രമോ നിയന്ത്രിതമോ ആയ വോൾട്ടേജ് ഉറവിടങ്ങൾ ഉള്ളപ്പോൾ എങ്ങനെയാണോ വോൾട്ടേജ് ഉറവിടത്തിൻറെ സവിശേഷത ഉപയോഗിച്ച് വോൾട്ടേജ് ഉറവിടത്തിലൂടെ ഉള്ള കറണ്ടിന് ഒരു സമവാക്യം എഴുതാൻ സാധിക്കാതിരുന്നത് അതുപോലെയാണിത് അതിനാൽ അതു നിർണയിക്കുന്നത് ഇതുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്താണോ അതു പ്രകാരം ആണ് അതിനാൽ ഇതിനെ നമ്മൾ മറ്റുചില സമവാക്യങ്ങൾ ഉപയോഗിച്ച് മാറ്റിയെഴുതി ഉത്തമമായ ഓപ് ആമ്പിൻറെ കാര്യത്തിലും ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ട് നോഡിൽ നമുക്ക് KCL സമവാക്യം എഴുതാൻ സാധിക്കുകയില്ല അതിനുപകരം നമുക്ക് വെർച്വൽ ഷോർട്ട് സമവാക്യം എഴുതേണ്ടിവരും അതിനാൽ ഇത് V1 ഉം V2 ഉം ആണ് V 1 V 2 ആണ് പിന്നെ ഇത് വെർച്വൽ ഷോർട്ടിന് സമാനമാണ് അതിനാൽ അടിസ്ഥാന ആശയം ഇതാണ് ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ടിൽ KCL സമവാക്യം എഴുതാൻ സാധിക്കുകയില്ല ഇതുവരെ നമ്മൾ പരിഗണിച്ചതെല്ലാം ഒരേയൊരു ഓപ് ആമ്പ് മാത്രമുള്ള സർക്യൂട്ടുകൾ ആണ് എന്നാൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഓപ് ആമ്പുകൾ ഉണ്ടെങ്കിൽ ഓരോ ഓപ് ആമ്പിനും ഇതേ തത്വം തന്നെയാണ് ഉപയോഗിക്കുക അതിനാൽ KCL സമവാക്യത്തിൽ ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ടിനെ ആ ഓപ് ആമ്പിനു വേണ്ടിയുള്ള വെർച്വൽ ഷോർട്ട് സമവാക്യം ഉപയോഗിച്ച് മാറ്റിയെഴുതുന്നു ഇതാണ് പൊതുവേ ഓപ് ആമ്പ് സർക്യൂട്ടുകളെ വിശകലനം ചെയ്യുന്ന രീതി ഇപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കേണ്ട ഒരു കാര്യം വെർച്വൽ ഷോർട്ട് ബാധകമാകുന്നത് ഓപ് ആമ്പ് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആയിരിക്കുമ്പോൾ മാത്രമാണ് അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ആശയങ്ങൾ ഉപയോഗിച്ച് പ്രത്യേകം പരിശോധിക്കണം എല്ലാ ഓപ് ആമ്പുകളും നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആണോ എന്ന് പരിശോധിക്കണം പക്ഷേ ഒരിക്കൽ ഇത് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആണെങ്കിൽ ഇൻപുട്ടുകൾ സാങ്കൽപ്പികമായി ഷോർട്ട് ചെയ്യപ്പെടുകയും നിങ്ങൾക്ക് ഇതിനെ ഉത്തമമായ ആയ ഓപ് ആമ്പുകൾ ഉള്ള സർക്യൂട്ടുകളുടെ വിശകലനത്തിനായി ഉപയോഗിക്കുകയും ചെയ്യാം അതിനാൽ ഇതിൻറെ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രം ഞാൻ ഈ സർക്യൂട്ട് വിശകലനം ചെയ്യട്ടെ നമുക്ക് ഇതിൻറെ ഫലം ഇതിനകം തന്നെ അറിയാം പക്ഷേ ഞാനീ നോഡൽ വിശകലന സമവാക്യങ്ങൾ യഥാക്രമം എഴുതുകയാണ് ഇപ്പോൾ നമുക്ക് ഒരു ഉത്തമമായ ഓപ് ആമ്പ് ആണുള്ളത് അതിന് 123 എന്നീ മൂന്ന് നോഡുകൾ ഉണ്ട് ഇപ്പോൾ നമ്മൾ നോഡൽ വിശകലനം ചെയ്യാൻ ശ്രമിക്കാൻ പോവുകയാണ് അത് അർത്ഥമാക്കുന്നത് നമ്മൾ കിർച്ചോഫ്സ് കറണ്ട് ലോ Kirchoffs Current Law സമവാക്യങ്ങൾ എല്ലാ നോഡുകളിലും എഴുതാൻ ശ്രമിക്കണമെന്നാണ് റഫറൻസ് നോഡ് തീർച്ചയായും ഗ്രൌണ്ട് ആണ് ഇതാണ് റഫറൻസ് നോഡ് ഇപ്പോൾ നിങ്ങൾ നോഡ് 1 ൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു വോൾട്ടേജ് ഉറവിടം ഉണ്ട് അതായത് നമുക്ക് അവിടെ KCL സമവാക്യം എഴുതാൻ സാധിക്കില്ല അതിനുപകരം അടിസ്ഥാനപരമായി അതുമായി ചേർന്നുപോകുന്ന എന്തെങ്കിലും നമ്മൾ എഴുതണം നിങ്ങൾ വാസ്തവത്തിൽ ചെയ്യാൻ പോകുന്നത് നോഡ് 1 ഉം റഫറൻസ് നോഡും ചേർത്ത് ഒരു സൂപ്പർ നോഡ് നിർമ്മിക്കുക എന്നതാണ് റഫറൻസ് നോഡിന് നിങ്ങൾ സമവാക്യം ഒന്നും എഴുതാത്തതിനാൽ സൂപ്പർ നോഡിനും നിങ്ങൾക്ക് ഏതെങ്കിലും സമവാക്യം എഴുതാൻ സാധിക്കില്ല അതിനുപകരം ഈ വോൾട്ടേജ് ഉറവിടം ചുമത്തുന്ന പരിമിതിയാണ് നിങ്ങൾക്കുള്ളത് അത് പറയുന്നത് ഇതാണ് നോഡ് 1 ലെ വോൾട്ടേജ് V1 Vi എന്ന വോൾട്ടേജ് ഉറവിടമാണ് ഇതിനു സമാനമായി ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ടുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഈ നോഡിൽ KCL സമവാക്യം എഴുതാൻ സാധിക്കില്ല അതിനാൽ ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ടിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് എത്രയാണെന്ന് നമുക്കറിയില്ല അതിനാൽ ഇവിടെ KCL സമവാക്യം ഇല്ല പകരം നമ്മൾ വെർച്വൽ ഷോർട്ട് സമവാക്യമാണ് എഴുതുന്നത് എന്താണ് വെർച്വൽ ഷോർട്ട് സമവാക്യം പറയുന്നത് അത് പറയുന്നത് ഈ നോഡ് വോൾട്ടേജും ആ നോഡ് വോൾട്ടേജും ഒന്ന് തന്നെയാണ് എന്നാണ് അതായത് V1 V3 അവസാനമായി നോഡ് മൂന്നിൽ നമുക്ക് സമവാക്യം എഴുതാം അത് Vx ആണ് അത് V3 ക്ക് തുല്യമാണ് അതിനാൽ ഞാനെൻറെ പതിവായുള്ള അടയാളപ്പെടുത്തൽ ഉപയോഗിക്കട്ടെ അതായത് V3 1R 1R V2 1R ഈ നോഡിൽ പ്രവേശിക്കുന്ന സ്വതന്ത്ര കറണ്ട് ഉറവിടങ്ങളുടെ ആകെ തുക അതായത് പൂജ്യം ഞാൻ ഈ മൂന്ന് സമവാക്യങ്ങൾ അതായത് ഇത് പിന്നെ അത് പിന്നെ അത് ഇവ ഉപയോഗിച്ച് പരിഹരിക്കുകയാണെങ്കിൽ തീർച്ചയായും അടിസ്ഥാനപരമായ പരിഹാരം എനിക്ക് ലഭിക്കും അത് ഇതാണ് V1 Vi V2 k x Vi പിന്നെ V3 Vi അതിനാൽ ഈ മൂന്ന് സമവാക്യങ്ങളുടെ യുടെ പരിഹാരം ഇതാണ് ധാരാളം ഓപ് ആമ്പുകൾ ഉള്ള വളരെ സങ്കീർണമായ ഒരു സർക്യൂട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ വീണ്ടും അവ മാറ്റി സ്ഥാപിച്ച് ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ടിൽ കിർച്ചോഫ്സ് കറണ്ട് ലോ സമവാക്യങ്ങൾ എഴുതുക എന്നത് സാധ്യമല്ല അതിനാൽ നിങ്ങൾ അത് മറന്നേക്കു നിങ്ങൾക്ക് തൽക്ഷണം തന്നെ ഓരോ ഓപ് ആമ്പിനും പ്രത്യേകമായി വെർച്വൽ ഷോർട്ട് സമവാക്യം എഴുതാം ഒരു കാര്യം വളരെ വ്യക്തമാണ് അതായത് ഈ രീതി ബാധകമാകുന്നത് സർക്യൂട്ടിലെ എല്ലാ ഓപ് ആമ്പുകളും നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആകുമ്പോൾ മാത്രമാണ് അവ ഓരോന്നും പ്രത്യേകമായി പരിശോധിക്കപ്പെടേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര അറിയപ്പെടാത്ത പദങ്ങൾ ഉണ്ടോ അത്രതന്നെ സമവാക്യങ്ങളും ഉണ്ടാകും സർക്യൂട്ടിൽ മറ്റ് വോൾട്ടേജ് ഉറവിടങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ നോഡ് എന്ന ആശയം ഉപയോഗിക്കേണ്ടിവരും ഞാൻ അനുമാനിക്കുന്നത് നിങ്ങൾ നോഡൽ വിശകലനം ഉപയോഗിക്കുമെന്നാണ് എന്നാൽ മെഷ് വിശകലനത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് എല്ലാം ഇവിടെയും ബാധകമാണ് അതുപോലെ തന്നെ നമുക്ക് നിയന്ത്രിത വോൾട്ടേജ് ഉറവിടങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും സൂപ്പർ നോഡുകൾ ഉണ്ടാക്കണം അതിനാൽ മറ്റെല്ലാം തന്നെ സാമ്പ്രദായികമായി നിലനിൽക്കും ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ട് നോഡിലെ സമവാക്യത്തിന് പകരം ഓപ് ആമ്പിൻറെ ഇൻപുട്ടുകളിലെ വെർച്വൽ ഷോർട്ട് സമവാക്യം ഉപയോഗിക്കുന്നു